ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ആദ്യം ഞാൻ ചില പൊട്ടൻഷ്യലുകൾ വെക്റ്റർ പൊട്ടൻഷ്യലുകൾ തുടങ്ങിയവ അവതരിപ്പിച്ചുകൊണ്ട് ആന്റിന വിശകലനം ആരംഭിക്കാം ആന്റിനയുടെ ഉപരിതലത്തിൽ അതിന്റെ കറന്റ് വിതരണത്തെക്കുറിച്ച് എനിക്കറിയാമെങ്കിൽ എനിക്ക് വൈദ്യുത കാന്തികക്ഷേത്രം കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മൾ പറയുന്നു എന്നാൽ ഇത് എളുപ്പത്തിൽ പറയാം പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുപകരം പൊട്ടൻഷ്യലുകളെ ഇടയ്ക്കിടെ പരിചയപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആദ്യം പൊട്ടൻഷ്യലുകൾ കണ്ടെത്തുകയും അതിനുശേഷം നമ്മൾ കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യും എന്നാൽ എന്താണ് പ്രയോജനം പൊട്ടൻഷ്യലുകളിലേക്ക് പോകുന്നതിന് ചില ഗുണങ്ങളുണ്ട് പക്ഷേ വളരെ ലളിതമായ ആന്റിനകൾക്ക് മാത്രമേ ആന്റിനയിലുടനീളം കറന്റ് വിതരണം കണ്ടെത്താൻ കഴിയൂ സങ്കീർണ്ണമായ ആന്റിനകൾ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആധുനിക ആന്റിനകൾ കണ്ടെത്തുന്നത് എളുപ്പമല്ല ആന്റിനകളിലൂടെ കറന്റ് വിതരണം എന്താണ് കാരണം വിവിധ മോഡുകൾ ഉണ്ടാകും വിവിധതരം വൈദ്യുത പ്രവാഹങ്ങൾ ഉണ്ടാകും ചില സമയങ്ങളിൽ വൈദ്യുത പ്രവാഹങ്ങൾ നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ചിലപ്പോൾ അവിടെ ചാലക കറന്റ് മുതലായവ അതിനാൽ ഇത് അത്ര എളുപ്പമല്ല എന്നിരുന്നാലും ആധുനിക കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ സംഖ്യാ രീതികളുണ്ടെന്ന് ഇന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ദൃശ്യവൽക്കരിക്കാനാകുന്നത് ഒരു നല്ല കാര്യമാണെന്നും അത് ഉപയോഗിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് കണ്ടെത്താനാകും എന്നാൽ നിങ്ങൾക്ക് ഈ കറന്റ് വിതരണം ഒരു കാര്യത്തിലും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആന്റിന ഉപയോഗിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഏകദേശം ആന്റിനയും ഫലങ്ങളും ഉടൻ തന്നെ ഉപയോഗിക്കാൻ കഴിയും ഈ സമീപനം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈസ് ട്രാൻസ്മിഷൻ സമവാക്യം ആന്റിന വികിരണം ചെയ്യുന്ന കൃത്യമായ ഫീൽഡിന് പകരം നിങ്ങൾ നിർവ്വഹിക്കണം അല്ലെങ്കിൽ എന്താണ് എന്ന് കണ്ടെത്തുക ട്രാൻസ്മിറ്റർ മുതൽ റിസീവർ വരെയുള്ള പ്രത്യേക താൽപ്പര്യമുള്ള വിവിധ ദിശകളിൽ ആന്റിനയുടെ നേട്ടം സ്വീകർത്താവിന് ഒരു വസ്തു ശക്തി ലഭിക്കുന്ന ദിശ അതിനാൽ നിങ്ങൾക്ക് നേട്ടം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതിന് എത്രത്തോളം പവർ ലഭിക്കുമെന്നും യഥാർത്ഥത്തിൽ ലിങ്കുചെയ്യാമെന്നും നിങ്ങൾക്ക് കണ്ടെത്താനാകും ആന്റിനകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകാത്തപ്പോൾ പോലും ഈ സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കി ആശയവിനിമയ ലിങ്കുകൾ സ്ഥാപിക്കപ്പെടുന്നു അതിനാൽ ഫ്രീസ് ട്രാൻസ്മിഷൻ സമവാക്യമായിരുന്നു അത് അതിനാൽ നമുക്ക് രണ്ട് ആന്റിനകൾ നോക്കാം അതിനാൽ ഇത് പ്രക്ഷേപണം ചെയ്യുന്ന ആന്റിനയാണ് ഇത് സ്വീകരിക്കുന്ന ആന്റിനയാണ് കൂടാതെ അപ്പോൾ ഇത് കണക്റ്റുചെയ്തിരിക്കുകയോ പവർ പണ്ഡിറ്റ് വികിരണം ചെയ്യുകയോ ആണെങ്കിൽ സ്വീകരിക്കുന്ന ആന്റിനയിലെ വൈദ്യുതി സാന്ദ്രത എന്താണ് Wt Pt Gt ആണെന്ന് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും യഥാർത്ഥത്തിൽ ഇത് ഒരു കോണായി നിലനിർത്തണം പക്ഷേ ഞാൻ എഴുതുന്നത് ഇവിടെ മൂല്യം അറിയുന്നതുപോലെ അതിനാൽ Pt Gt by 4 pi R square നിങ്ങൾക്ക് Pt Gt വേണമെങ്കിൽ കാര്യക്ഷമത മൊത്തം ഉണ്ടെങ്കിൽ Pt Dt ρt by 4 pi R സ്ക്വയർ ഇപ്പോൾ ഈ ആന്റിനയ്ക്ക് ഫലപ്രദമായ ഒരു ഏരിയയുണ്ട് അതിനാൽ സ്വീകരിക്കുന്ന ആന്റിനയ്ക്ക് ഫലപ്രദമായ ഒരു ഏരിയയുണ്ട് ρr Dr lambda not അവസാനത്തെ പ്രഭാഷണത്തിൽ മാത്രമല്ല ഈ ലാംഡയിൽ നിന്ന് ഞങ്ങൾ നേടിയത് lambda not square 2 pi ആണ് അതിനാൽ ഇത് എത്രത്തോളം പവർ ശേഖരിക്കും ഊർജ്ജ ശേഖരണം Pr ആയിരിക്കും Wt into ഇതിന് തുല്യമാണ് അതിനാൽ എനിക്ക് Wt into Aer എന്ന് പറയാൻ കഴിയും അതിനാൽ അത് Pt ρt Dt by 4 pi r square into ρr Dr lambda not square 4 piആയിരിക്കും അതിനാൽ Pr എന്നത് ρt ρr lambda not square Dt Dr by 4 pi R whole square എന്നതിന് തുല്യമാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ധ്രുവീകരണ നഷ്ട ഘടകത്തെ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ മുമ്പ് ഉരുത്തിരിഞ്ഞ ഈ കാര്യം at cap ar capൽ അല്ലെങ്കിൽ ഈ കാര്യക്ഷമതയിലേക്ക് തകർക്കുകയാണെങ്കിൽ ഇംപെഡൻസ് പൊരുത്തക്കേട് പൊരുത്തപ്പെടുന്നില്ല കണ്ടക്ടർ നഷ്ടത്തിലേക്ക് ഡീലക്ട്രിക് നഷ്ടം മുതലായവ ഉണ്ടാകുന്നു അതിനാൽ Pr എന്നത്ρcdt ρcdr 1 minus gamma t square 1 minus gamma square lambda not by 4 pi R square Dt Dr എന്ന് എഴുതാം അതിനാൽ ഈ സൂത്രവാക്യത്തെ ഫ്രൈസ് ട്രാൻസ്മിഷൻ സമവാക്യം എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വിവിധ പാരാമീറ്ററുകൾ അറിയാമെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടക്ടർ ഡീലക്ട്രിക് നഷ്ടം ഒരുമിച്ച് എടുത്തതായി നിങ്ങൾ കാണുന്നു ഇത് കണ്ടക്ടർ നഷ്ടം ട്രാൻസ്മിഷൻ നഷ്ടം എന്നിങ്ങനെ വിഭജിക്കപ്പെടാം പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പൊതുവെ ഒരുമിച്ച് എടുക്കുന്നു കാരണം കണ്ടക്ടർ നഷ്ടം എന്താണെന്നും എന്താണ് കണക്കാക്കുന്നത് എന്നും അളക്കുന്നതിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടാണെന്നും ഡീലക്ട്രിക് നഷ്ടം അതിനാൽ രണ്ട് നഷ്ടങ്ങളും ഒരുമിച്ച് ചേർക്കാം അതിനാലാണ് ഇത് കണ്ടക്ടർ ഡീലക്ട്രിക് അതിനാൽ ഈ പാരാമീറ്ററുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് അറിയാം ഇവിടെ ഒരു Pt വരണം അതിനാൽ യഥാർത്ഥത്തിൽ ഈ സമവാക്യം Pr by Pt ആണ് എവിടെ നിന്നോ Pt പോയിരിക്കുന്നു Pt Dt ഇവയെല്ലാം യഥാർത്ഥത്തിൽ Pr ആയിരിക്കണം അത് Wt Aer ന് തുല്യമാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഈ സമവാക്യത്തെ ഫ്രൈസ് ട്രാൻസ്മിഷൻ സമവാക്യം എന്ന് വിളിക്കുന്നു ഇംപെഡൻസ് പൊരുത്തമുണ്ടോയെന്ന് നിങ്ങൾ നോക്കിയാൽ ഈ രണ്ട് പദങ്ങളും പോകും അതുപോലെ തന്നെ ധ്രുവീകരണ പൊരുത്തമുണ്ടെങ്കിൽ ഈ പദം പോകും ഇത് നഷ്ടം കുറവാണെങ്കിൽ ആന്റിന ഈ രണ്ട് പദങ്ങളും പോകും അതിനാലാണ് പൊതുവെ നമുക്ക് അനുയോജ്യമായ അവസ്ഥയിലുള്ള lambda not square by 4 pi R whole square Gt Gr എന്നു പറയാം ഇത് നമുക്ക് പരിചിതമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഫോർമുലയാണ് ഈ ഫോർമുലയെ ഫ്രൈസ് ട്രാൻസ്മിഷൻ ഫോർമുല എന്ന് ഞങ്ങൾ പല തവണ ഉപയോഗിക്കുന്നു ഇവിടെയുള്ള അനുമാനങ്ങൾ ട്രാൻസ്മിറ്റർ റിസീവർ ആന്റിനകളാണ് അവ വിദൂര ഫീൽഡ് അകലം കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള റിസീവറിന്റെ ദിശയിൽ നമുക്കറിയാം സ്വീകരിക്കുന്ന ആന്റിനയ്ക്ക് സമാനമായ നേട്ടങ്ങൾ ട്രാൻസ്മിറ്ററിന് ആ ദിശയിലുള്ള നേട്ടം നമുക്കറിയാം മറ്റെല്ലാ നഷ്ടങ്ങളും നമുക്കറിയാം അപ്പോൾ നമുക്ക് ഈ കാര്യം കണ്ടെത്താനാകും റഡാർ ശ്രേണി സമവാക്യത്തിന് സമാനമായ ഒരു സമവാക്യം ഉരുത്തിരിയാൻ കഴിയും അവയും ഇത്തരത്തിലുള്ള സൂത്രവാക്യങ്ങൾ ഉപയോഗിക്കാം അവ ഒരു റിസീവറിന് പകരം ഒരു ടാർഗെറ്റ് ഉണ്ട് ഊർജ്ജം എടുത്ത് വീണ്ടും അവ തിരിച്ചുവിടുന്നു അതിനാൽ റഡാർ ക്ലാസുകളിൽ ഞങ്ങൾ അവ കണ്ടെത്തും അവയും എടുത്താൽ റഡാർ ക്രോസ് സെക്ഷൻ എന്നൊരു പുതിയ പദം അവിടെ വാർത്തകളിൽ പെടുന്നു അതിലൂടെ നിങ്ങൾക്ക് ഈ തരം ലളിതമായ മോഡലുകളിൽ നിന്ന് പുറത്തേക്ക് ചിതറിക്കിടക്കുന്ന വൈദ്യുതി എന്താണ് അതിനാൽ ആന്റിന വിശകലനം ചെയ്യുന്നതിനുപകരം നിങ്ങൾ കാണുന്ന നേട്ടം അറിയുന്നതിലൂടെ ആവശ്യമായ പവർ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ നിങ്ങൾക്ക് ആശയവിനിമയ ലിങ്കുകൾ സ്ഥാപിക്കാൻ കഴിയും അതിനായി ആന്റിനയുടെ എല്ലാ വിശകലനങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതില്ല അതിനാൽ ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഈ സിദ്ധാന്ത വിശകലനം എല്ലാ വിവരങ്ങളും നൽകുന്ന ഓവർകിൽ ആണെങ്കിൽ പക്ഷേ ആ വിവരങ്ങളെല്ലാം എല്ലായ്പ്പോഴും ആവശ്യമില്ല അതിനാൽ ഒരു ആശയവിനിമയ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ ഈ വിവരങ്ങൾ മതിയാകും അതിനാൽ വിവിധ മേഖലകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിഷമിക്കേണ്ടതില്ല വിവിധ ഘട്ടങ്ങളിൽ ഈ ധ്രുവീകരണം എന്താണ് ഈ നഷ്ട ഘടകങ്ങളെല്ലാം അവനുണ്ടെങ്കിൽ അത് ലിങ്ക് സുസ്ഥിരമാക്കുന്നു അതിനാൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണിത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ആന്റിന എപ്പോഴാണെന്നത് നിങ്ങൾ കാണുന്നു അത് എല്ലായ്പ്പോഴും ശൂന്യമായ ഇടത്തേക്കാണ് നോക്കുന്നത് അതിനാൽ ഇത് ശബ്ദത്തിന്റെ ഉറവിടമാണ് ഇപ്പോൾ അതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം പലതവണ ഞങ്ങൾ അത് അവഗണിക്കുന്നു പക്ഷേ നിങ്ങൾ റേഡിയോ ജ്യോതിശാസ്ത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണമെങ്കിൽ കാലാവസ്ഥയോ സമുദ്രമോ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു റിസീവർ ഉപയോഗിച്ച് സമുദ്ര താപനില കണ്ടെത്താൻ അതിനാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്കാറ്റെറോമീറ്റർ ഉണ്ടെങ്കിൽ ചില നിഷ്ക്രിയ വികിരണങ്ങൾ വരുന്ന പല സെൻസറുകളും അവിടെയുണ്ട് അതിനാൽ ശബ്ദത്തിൽ ആന്റിന സ്വീകരിക്കുന്നതെന്തും യഥാർത്ഥത്തിൽ വിവരമാണ് അതിനാൽ അവർക്ക് ആന്റിനയുടെ മറ്റൊരു പാരാമീറ്റർ ആവശ്യമാണ് ആന്റിന താപനില എന്ന് വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാരാമീറ്റർ അതിനാൽ ഈ അടുത്ത ആന്റിന താപനിലയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും റിസീവർ ശബ്ദം അല്ലെങ്കിൽ റിസീവർ ശബ്ദ താപനില അല്ലെങ്കിൽ ശബ്ദ താപനിലയുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് സർക്യൂട്ട് എന്നിവയെക്കുറിച്ച് ധാരണയുണ്ട് ഇപ്പോൾ ആന്റിന ഇത് ഒരു നിഷ്ക്രിയ ഉപകരണമാണ് അത് സ്വന്തം ശബ്ദം സൃഷ്ടിക്കുന്നില്ല പക്ഷേ ഇത് ശബ്ദത്തിന്റെ സ്വീകർത്താവാണ് കാരണം അത് ശബ്ദം സ്വീകരിക്കുന്നു കാരണം ഇത് ഒരു തുറന്നതിനാൽ അത് അതിന്റെ വാതിൽ തുറക്കുന്നു അതിനാൽ ശബ്ദവും സിഗ്നലിനുപുറമെ വരുന്നു ശബ്ദവും വരുന്നു അതിനാലാണ് ഈ ആന്റിന താപനിലയെ എത്രമാത്രം എടുക്കേണ്ടത് എന്നതും ഉണ്ടായിരിക്കണം ഇപ്പോൾ 0 ൽ ഇല്ലാത്ത എല്ലാ ഒബ്ജക്റ്റുകളും ഞങ്ങൾ ആരംഭിക്കുന്നു അതായത് മൈനസ് 273 ഡിഗ്രി ദൂരത്തിൽ അല്ല ഈ വസ്തുത നമുക്കറിയാം വികിരണം ചെയ്യുന്ന ഊർജ്ജത്തിന്റെ അളവ് സാധാരണയായി തുല്യ താപനിലയായ ടിബി പ്രതിനിധീകരിക്കുന്നു അതിനാൽ നമുക്ക് ടിബി എഴുതാം കൂടാതെ വികിരണം ഒരു വികിരണം എന്ന് അർത്ഥമാകുമ്പോഴെല്ലാം അത് വിവിധ ദിശകളിലുള്ള തീറ്റ ഫൈയ്ക്ക് വിവിധ കാര്യങ്ങളുണ്ടാകും അതിനാൽ ഇത് ഇതുപോലുള്ള ഒരു ഫംഗ്ഷന് തുല്യമാണ് അപ്പോൾ എന്താണ് ഈ എപ്സിലോൺ ഇതൊരു എമിസിവിറ്റി ഫംഗ്ഷനാണ് ഇത് അളവില്ലാത്ത അളവാണ് അതിനാൽ യഥാർത്ഥത്തിൽ ഇത് ഒരു വസ്തുവിന് ഒരു എമിസിവിറ്റി ഉള്ള ഒരു മാതൃകയാണ് അതിനാൽ നമുക്ക് അറിയാവുന്ന വിവിധ കാര്യങ്ങളുടെ എമിസിവിറ്റി എന്താണ് എന്താണ് ടിബി ടിബിയെ തെളിച്ച താപനില എന്ന് വിളിക്കുന്നു എന്താണ് ടിഎം ഇതാണ് ഭൌതിക താപനില അതിനാൽ ഈ രണ്ട് താപനിലയും അവയുടെ യൂണിറ്റ് കെൽവിൻ എമിസിവിറ്റി അളവില്ലാത്തതാണ് ഇത് എന്താണ് ഈ പ്രതിഫലന ഗുണകം തരംഗത്തിന്റെ ധ്രുവീകരണത്തിനായുള്ള ഉപരിതലത്തിന്റെ പ്രതിഫലന ഗുണകമാണ് ഇത് കാരണം ഏതെങ്കിലും ഉപരിതലത്തിൽ നിന്ന് തരംഗം വരുമ്പോൾ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അത് അവിടെയുണ്ട് ഇപ്പോൾ എമിസിവിറ്റി മൂല്യങ്ങൾ വ്യക്തമായും അവ 0 മുതൽ 1 വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ തെളിച്ചത്തിന്റെ താപനില കൈവരിക്കാൻ കഴിയുന്ന പരമാവധി മൂല്യം ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഭ physical തിക താപനിലയ്ക്ക് തുല്യമാണ് അതിനർത്ഥം മൈക്രോവേവ് മേഖലയിൽ മൈക്രോവേവ് ഫ്രീക്വൻസിയുടെ പ്രകൃതിദത്ത എമിറ്ററുകൾ ഞാൻ കരുതുന്നത് നക്ഷത്രങ്ങൾ മുതലായവയാണ് അവ നമ്മുടെ റേഡിയോ നക്ഷത്രങ്ങളാണെങ്കിലും അവയ്ക്ക് സമീപം രണ്ട് വികിരണ സ്രോതസ്സുകളുണ്ട് ഒന്ന് നിലമാണ് ഈ വികിരണത്തിന്റെ ഉറവിടം നിലമാണ് അതിന്റെ അടിസ്ഥാന താപനില 300 ഡിഗ്രി കെൽവിനാണ് കൂടാതെ ആകാശം ആകാശത്തിന് ഒരു താപനിലയുണ്ട് ഈ തെളിച്ചത്തിന്റെ താപനില 5 ഡിഗ്രി 5 കെൽവിൻ ഏതെങ്കിലുമൊന്ന് നോക്കുമ്പോൾ ചക്രവാളത്തിൽ 100 മുതൽ 150 ഡിഗ്രി വരെ വ്യക്തമായും ചക്രവാളത്തിൽ അത് കൂടുതൽ ഗൌരവമുള്ളതാണ് മാത്രമല്ല റാഡറുകൾ മുതലായവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങൾ ഭാഗ്യം ഉണ്ടാകുകയില്ല ഇപ്പോൾ ഈ താപനില അല്ലെങ്കിൽ വ്യത്യസ്ത സ്രോതസ്സുകൾ പുറപ്പെടുവിക്കുന്ന ഈ ശബ്ദം ഞങ്ങളുടെ ആന്റിന തടസ്സപ്പെടുത്തുന്നു അതിനാൽ ഇത് ടെർമിനലുകളിൽ ഒരു ആംബിയന്റ് താപനിലയായി ദൃശ്യമാകുന്നു ഇപ്പോൾ ആന്റിനയ്ക്ക് ഒരു നേട്ടം മാത്രമേയുള്ളൂ അതിനാൽ പ്രധാന ദിശകളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അതിന്റേതായ നേട്ടത്തിലൂടെ കാത്തിരിക്കും അതിനാലാണ് ആന്റിന ശബ്ദ താപനില കൃത്യമായി ഈ ടിബി അല്ലാത്തത് അത് ഒരു ഭാരം ആയിരിക്കും അതുകൊണ്ടാണ് ആന്റിന ശബ്ദ താപനില TA അല്ലാതെ മറ്റൊന്നുമല്ല എനിക്ക് TB തീറ്റ ഫൈ എന്ന് പറയാൻ കഴിയും അത് വീണ്ടും തീറ്റ ഫൈ ഉപയോഗിച്ച് ഭാരം വഹിക്കും തുടർന്ന് d കൊണ്ട് വിഭജിച്ച സോളിഡ് ആംഗിൾ ഇവയുടെ ആകെത്തുക എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ശരാശരി കാരണം ഈ TA ഒരു ശരാശരിയാണ് അതിനാൽ നിങ്ങൾ G theta phi d gamma കാണുന്നു അതിനാൽ ഒരു TB തെളിച്ച താപനിലയെന്ന ഉറവിടം എനിക്ക് n ഉള്ള ഈ ആന്റിനയിലൂടെ കടന്നുപോകേണ്ടിവരും അതിനാൽ ഇപ്പോൾ എനിക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയും ഇത് 0 മുതൽ 2 പൈ വരെ ആയിരിക്കും ഇത് 0 മുതൽ പൈ വരെ ആയിരിക്കും ഇത് 2 പൈയ്ക്കും ആയിരിക്കും ഇത് 0 മുതൽ പൈ വരെ ആയിരിക്കും അതിനുപകരം ഞാൻ എഴുതുന്നു sin theta d theta d phi അതിനാൽ TA ആന്റിനയുടെ ഫലപ്രദമായ ശബ്ദ താപനിലയും ജി തീറ്റ ഫൈ ആണ് പവർ ഗെയിൻ പാറ്റേൺ അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് കാണാമെന്ന് കരുതുകയാണെങ്കിൽ ഇത് വ്യക്തമാണ് ഈ യൂണിറ്റ് വീണ്ടും കെൽവിൻ ആയിരിക്കും ഇപ്പോൾ ഇത് ആന്റിനയാണെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഉറവിടം ഇവിടെ TB ആണ് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ TB ആ ഫോർമുല ഉപയോഗിച്ച് TA യിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു ഇപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും ഇതാണ് ആന്റിന എന്ന് കരുതുക ഞാൻ കരുതുന്നു ഇവിടെ എനിക്ക് ഒരു ട്രാൻസ്മിഷൻ ലൈനുണ്ട് ഇത് ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാകും ആ ട്രാൻസ്മിഷൻ ലൈൻ നമുക്ക് l ന്റെ നീളം പറയട്ടെ ഒരു താപനിലയെന്ന നിലയിൽ T not എന്ന് പറയട്ടെ അത് നഷ്ടപ്പെടുന്ന ട്രാൻസ്മിഷൻ ലൈൻ ആണ് അതിനാൽ ഈ മാറ്റം വരുത്തും കാരണം ഇവിടെ ഈ TA അപ്പോൾ ഒരു കാര്യം ഉണ്ടാകും ആന്റിന നഷ്ടം കാരണം ഇത് മാറും ഇപ്പോൾ ഇവിടെ ട്രാൻസ്മിഷൻ ലൈനിൽ വീണ്ടും നഷ്ടമുണ്ടാകും അതിനാൽ ഈ താപനില TA ഇവിടെ ടി സ്മോൾ എ എന്ന് ടി ക്യാപിറ്റൽ എ മുതൽ ടി ചെറുതായി മാറ്റും എന്നിട്ട് അത് ആരുമായി ബന്ധിപ്പിക്കും ഇത് ഒരു റിസീവറുമായി ബന്ധിപ്പിക്കും ആ റിസീവറിന് അതിന്റേതായ ശബ്ദ താപനില Tr ഉണ്ട് അതിനാൽ ആത്യന്തികമായി നമുക്ക് ഒരു Ts ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയും അത് Tr plus Ta ആണ് കാരണം താപനില അഡിറ്റീവായതിനാൽ നമ്മൾ കാണും കാരണം യഥാർത്ഥത്തിൽ ഇവ തുല്യ ശക്തിയാണ് അതിനാൽ ശബ്ദ പവർ മൊത്തം സിസ്റ്റം ശബ്ദ പവർ ആന്റിന ഇവിടെ കൊണ്ടുവന്നതും റിസീവർ ചേർത്ത ശബ്ദവും ആയിരിക്കും അതിനാൽ നമുക്ക് ഇത് മോഡുലേറ്റ് ചെയ്യാം അതിനാൽ K TA delta f എത്രത്തോളം പറയാൻ കഴിയുമെന്ന് ആന്റിന നൽകുന്നു അതിനാൽ ഇവിടെ നിന്ന് ആന്റിന നൽകുന്നത് ഇത്രയും ശക്തിയാണ് K TA delta f കെ ബോൾട്ട്സ്മാൻ സ്ഥിരാങ്കമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു TA യാണ് ഇവിടെ ആന്റിന താപനില delta f ആന്റിനയുടെ ശബ്ദ തുല്യമായ ബാൻഡ്വിഡ്ത്ത് എന്ന് എനിക്ക് പറയാൻ കഴിയും ഇപ്പോൾ ടി യും ക്യാപിറ്റൽ TAയും തമ്മിലുള്ള ബന്ധം എന്താണ് എനിക്ക് TA എഴുതാൻ കഴിയുമോ അത് TA e to the power minus 2 alpha l plus T0 1 minus e to the power minus 2 alpha l ആണ് എന്തുകൊണ്ട് കാരണം ഇവിടെ കൊണ്ടുവന്ന വരിയുടെ ഈ അറ്റൻവ്യൂഷൻ സ്ഥിരാങ്കത്തോടുകൂടിയ ഈ ദൈർഘ്യം വളരെ കൂടുതലാണ് ഇതിന് കാരണം ഈ ട്രാൻസ്മിഷൻ ലൈനിന്റെ കാര്യമാണ് കാര്യത്തിന് ഒരു ടിഎ താപനിലയുണ്ട് ഇതിന്റെ ഭൌതിക താപനില T0 ആണ് അതിനാൽ TA മറ്റൊന്നുമല്ല ഇത് നൽകിയ മൈനസ് ആണ് ഈ ഭൌതിക താപനിലയും ഇത് ആന്റിനയിൽ നിന്നുള്ളതുമാണ് ആന്റിനകൾ ഇപ്പോൾ അറ്റൻവേഷൻ TA എനിക്ക് മറ്റെന്താണ് പറയാനുള്ളത് അതിനാൽ ഇപ്പോൾ ഞാൻ അത് പരിഷ്കരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ശക്തി എന്താണ് റിസീവറിന് ഒരു TA small Ta delta f ഉണ്ട് അതിനാൽ ഇത് ഒരു a Ta ചേർക്കുന്നതിലൂടെയായിത്തീർന്നു തുടർന്ന് പിഎസ് എന്താണ് K TA plus Tr delta f എന്നിവ K Ts delta f തുല്യമാണ് എനിക്ക് K Ts delta f എന്ന് പറയാൻ കഴിയും അതിനാൽ റിസീവർ ടെർമിനലിലെ സിസ്റ്റം ശബ്ദ ശക്തിയാണ് Ps TA ആന്റിന ശബ്ദ താപനില ശബ്ദ താപനില റിസീവർ ടെർമിനലിൽ റിസീവർ ടെർമിനലിൽ ട്രീ റിസീവർ ശബ്ദ താപനില എന്താണ് TA ആന്റിനയുടെ ഔട്ട്പുട്ട് ടെർമിനലുകൾ അല്ലെങ്കിൽ ആന്റിനയുടെ അവസാനത്തെ സ്വതന്ത്ര സ്ഥലത്ത് എന്തായാലും ആന്റിന ശബ്ദ താപനിലയാണ് TA അതിനാൽ ഇത് ഉപയോഗപ്രദമായ കാര്യമാണ് നിങ്ങൾ അത് കാലിബ്രേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കറുത്ത ശരീര വികിരണം ലഭിക്കുമെന്ന് കരുതുക അതിനാൽ സമുദ്രത്തിൽ നിന്ന് എത്രമാത്രം വരുന്നുണ്ടെന്ന് ഒരു ആന്റിന കാണുമെന്ന് കരുതുക അതിനാൽ യഥാർത്ഥത്തിൽ എത്രമാത്രം ലഭിക്കുന്നുവെന്ന് കാലിബ്രേറ്റ് ചെയ്യാത്തതുവരെ അത് എങ്ങനെ കാണും അതിനാൽ നിങ്ങൾ അത് ഒരു കാര്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇത് പരമോന്നതത്തിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കാരണം അത് 5 ഡിഗ്രി കെൽവിൻ ഏതാണ്ട് 0 ഡിഗ്രി കെൽവിൻ ആണ് അതിനാൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിച്ച് ഈ മൂല്യങ്ങൾ കണ്ടെത്തുക അതിനാൽ അതാണ് കാലിബ്രേഷൻ അപ്പോൾ നിങ്ങൾ ഒരു യഥാർത്ഥ ശരീരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ചക്രവാളത്തിലുള്ള അദൃശ്യമായ ശബ്ദമുള്ള ചില ആകാശമായിരിക്കാം തുടർന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ കാലിബ്രേറ്റ് ചെയ്ത ഒരാൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ അതിനെ ആന്റിന ശബ്ദ താപനില എന്ന് വിളിക്കുന്നു അതിനാൽ ഞങ്ങൾ ഇപ്പോൾ അടിസ്ഥാന ആന്റിന പാരാമീറ്റർ അടയ്ക്കുന്നു അതിനാൽ ഞങ്ങൾ എല്ലാം കണ്ടു അടുത്തതായി നിങ്ങൾക്ക് വയർ ആന്റിന എളുപ്പത്തിൽ രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്ന വളരെ മികച്ച വയർ ആന്റിനകളിൽ ചിലത് ഞങ്ങൾ കാണും മാത്രമല്ല ഇത് മതിയാകും അതിനാൽ കുറച്ച് പ്രഭാഷണങ്ങളിൽ ഞങ്ങൾ വയർ ആന്റിനകൾ കാണും അതിനുശേഷം ഞങ്ങൾ വളരെ ലളിതമായ ചില അപ്പർച്ചർ ആന്റിനകളുമായി അപ്പർച്ചർ ആന്റിനകളിലേക്ക് പോകും തുടർന്ന് ആന്റിനയുടെ വിശകലന രീതി ഞങ്ങൾ കാണും